മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ വിശകലനം വിശകലനത്തിന്റെ അടിസ്ഥാനങ്ങൾ മെഷീൻ ലേണിംഗിന്റെ അടിസ്ഥാനങ്ങൾ മെഷീൻ ലേണിംഗ് എങ്ങനെ ആഴത്തിലുള്ള പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ സയൻസ് തുടങ്ങിയവയെക്കുറിച്ച് മനസ്സിലാക്കുന്നു അതിനാൽ അത് അടിസ്ഥാനപരമായി വിശകലനമാണ് അതിനർത്ഥം നിങ്ങൾക്ക് ഡാറ്റയുണ്ട് നിങ്ങൾ ഡാറ്റയിൽ നിന്ന് അർത്ഥമുണ്ടാക്കണം നിങ്ങൾ ഡാറ്റയിൽ നിന്ന് ബുദ്ധി നേടേണ്ടതുണ്ട് ഡാറ്റയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ബുദ്ധി നിങ്ങൾക്ക് ആ ബുദ്ധി ലഭിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങൾ ഈ മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് AI ടെക്നിക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാൽ നിങ്ങൾ ഡാറ്റ എവിടെ സൂക്ഷിക്കും എന്നതാണ് ചോദ്യം ഒരു കാര്യം ഡാറ്റ സംഭരിക്കുക ഡാറ്റയുടെ പ്രോസസ്സിംഗിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ എവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് അത് എങ്ങനെ ലഭിക്കും നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ലഭിക്കും ഈ ഡാറ്റ എത്രയാണ് ലഭ്യമാക്കും അതിന് നിങ്ങൾ എത്ര പണം നൽകണം നിങ്ങൾ വാങ്ങുമ്പോഴും ഇല്ലെങ്കിലും നിങ്ങൾ എപ്പോൾ വാങ്ങും അതിനാൽ ഞാൻ സംസാരിക്കുന്ന കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വാങ്ങുന്നത് ഒരു വെല്ലുവിളിയാണ് അതിനാൽ ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സാങ്കേതികവിദ്യ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അവിടെയാണ് അതിനാൽ ഇത് ഇപ്പോൾ വളരെ പ്രചാരമുള്ള ഒരു സാങ്കേതികവിദ്യയാണ് അതിനാൽ ഇന്നത്തെ കാലത്ത് ആളുകൾ കുറഞ്ഞു ഈ സംഘടനകളിൽ ഭൂരിഭാഗവും ബിസിനസ്സുകളും അവർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വാങ്ങുന്നത് കുറച്ചു പക്ഷേ സബ്സ്ക്രിപ്ഷൻ മോഡലുകളിലൂടെ ലഭ്യമായ ഈ ഓൺലൈൻ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സുകളിൽ പലതിന്റെയും സഹായം അവർ സ്വീകരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബുചെയ്യാൻ കഴിയും അടിസ്ഥാനപരമായി ഈ കമ്പ്യൂട്ടറേഷൻ പ്ലാറ്റ്ഫോമുകളിലൊന്നിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ സബ്സ്ക്രൈബുചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്നതെന്തും പണമടയ്ക്കുകയും അവയുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുകയും ചെയ്യാം അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് എന്താണ് ഉള്ളത് ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാഹചര്യമുണ്ടോ നിങ്ങൾക്ക് ചില കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു സെർവറോ കമ്പ്യൂട്ടറോ ഹൈ എൻഡ് മെഷീനോ വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മിക്കവാറും എല്ലാ കേസുകളിലും അടിസ്ഥാനപരമായി സ്വയം സബ്സ്ക്രൈബുചെയ്യാൻ ഇത് മതിയാകും ഈ ഓൺലൈൻ കണക്കുകൂട്ടൽ വിഭവങ്ങളിൽ ചിലത് അവ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിനാൽ അടുത്ത കുറച്ച് നിമിഷങ്ങളിൽ ഇത് കൂടുതൽ വ്യക്തമാക്കും പക്ഷേ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനാൽ ഞങ്ങൾ ചെയ്യുന്നതിനുമുമ്പ് അതിനാൽ IIoT ഇൻഡസ്ട്രി 4 0 എന്നിവയിൽ ഞങ്ങളുടെ പക്കലുള്ള ഒരു പുനരവലോകനം നൽകാൻ ഞാൻ ആഗ്രഹിച്ചു ഞങ്ങൾ സംവേദനം ആശയവിനിമയം നെറ്റ്വർക്കിംഗ് കമ്പ്യൂട്ടിംഗ് എന്നിവയെക്കുറിച്ച് സംസാരിച്ചു ഈ കമ്പ്യൂട്ടിംഗാണ് അടിസ്ഥാനപരമായി ക്ലൌഡ് സാങ്കേതികവിദ്യകളെ ആകർഷിക്കുന്നത് അതിനാൽ ക്ലൌഡിന് ബിസിനസ്സ് പ്രക്രിയകളെ കൂടുതൽ ലളിതമാക്കാനും കൂടുതൽ കാര്യക്ഷമവും ശക്തവും വിലകുറഞ്ഞതുമാക്കാൻ കഴിയും അതിനാൽ ഈ ക്ലൌഡ് സാങ്കേതികവിദ്യ സഹായകരമാകുന്നത് ഇവിടെയാണ് അതിനാൽ ഞങ്ങൾ ഡിജിറ്റലൈസേഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിജിറ്റൈസേഷൻ പ്രക്രിയയിൽ ഐഐഒടിയുടെ പശ്ചാത്തലത്തിൽ ഡാറ്റ ഏറ്റെടുക്കൽ ആസ്തികളുടെ ഡാറ്റ മാനേജ്മെന്റ് വിഭവങ്ങളുടെ മാനേജ്മെന്റ് വിജ്ഞാന മാനേജ്മെന്റ് തുടങ്ങിയവ ഉൾപ്പെടുന്നു അതിനാൽ ഐഐഒടിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ സംസാരിക്കുന്നത് വലിയ വേഗതയിൽ വരുന്ന ഡാറ്റയുടെ അളവിനെക്കുറിച്ചും അവയ്ക്ക് വ്യത്യസ്തമായ മറ്റ് സ്വഭാവസവിശേഷതകളാണെന്നും വ്യത്യസ്ത ഫീൽഡ് ഉപകരണങ്ങൾ വ്യത്യസ്ത മെഷീനുകൾ വ്യത്യസ്ത ഐഒടി ഉപകരണങ്ങൾ എന്നിവയിൽ നിന്ന് വരുന്ന ടൈം സീരീസ് ഡാറ്റ പോലെയാണ് ഇവ അതിനാൽ അത്തരം ഡാറ്റ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും അവിടെയാണ് ഈ മേഘം ആവശ്യമായി വരുന്നത് അതിനാൽ വലിയ അളവിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യാൻ ക്ലൌഡ് സാങ്കേതികവിദ്യ നിങ്ങളെ സഹായിക്കും ക്ലൌഡ് മാത്രമല്ല ഞങ്ങളുടെ വിശകലന പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ ഇതിനകം സംസാരിച്ചതുപോലുള്ള വ്യത്യസ്ത ഡാറ്റാ മാനേജുമെന്റ് ടെക്നിക്കുകളുള്ള ക്ലൌഡ് അതിനാൽ സംഭരണത്തിനും പ്രോസസ്സിംഗിനും ക്ലൌഡ് നിങ്ങളെ സഹായിക്കും അതായത് വ്യത്യസ്ത കമ്പ്യൂട്ടേഷണൽ ജോലികൾ നടത്തുന്നു അതിനായി നമ്മൾ ശരിക്കും പോയി വളരെ ചെലവേറിയ കമ്പ്യൂട്ടർ വാങ്ങേണ്ടതില്ല ചെലവേറിയ സെർവറും മറ്റും നമുക്ക് ചില ഓൺലൈൻ ക്ലൌഡ് സേവന ദാതാക്കളിലേക്ക് ലോഗിൻ ചെയ്യാനാകും അടിസ്ഥാനപരമായി ഒരു കോമ്പിനേഷനായ നമ്മൾ വികസിപ്പിച്ചെടുത്ത നമ്മുടെ സിസ്റ്റം ഹുക്ക് ചെയ്യാം വ്യത്യസ്ത IoT ഉപകരണങ്ങൾ ആ ക്ലൌഡിലേക്ക് ധാരാളം ഡാറ്റ എറിയുന്നു ബാക്കിയുള്ളവ ഈ ക്ലൌഡ് ചെയ്യാൻ പോകുന്നു അതിനാൽ ഞങ്ങൾ ഐഐഒടിയിൽ സംസാരിക്കുന്ന ഡാറ്റയുടെ സ്വഭാവം ഘടനാപരമായ അസംഘടിത ഡാറ്റയാണ് അവ റിലേഷണൽ ടേബിളുകളുടെ രൂപത്തിൽ സംഭരിക്കാനാവില്ല വ്യത്യസ്ത മെഷീനുകളിൽ നിന്ന് വരുന്ന ഡാറ്റ സെൻസർ ഡാറ്റ ആക്യുവേറ്റർ ഡാറ്റ അങ്ങനെ വരാനിരിക്കുന്ന ഡാറ്റ വ്യത്യസ്ത വ്യത്യസ്തമായ മറ്റ് വൈവിധ്യമാർന്ന യന്ത്രങ്ങളിൽ നിന്ന് ഡാറ്റയുടെ ഗുണനിലവാരം സമയത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു അതിനാൽ ക്ലൌഡ്ന്റെ ആവശ്യമുണ്ട് ക്ലൌഡ് ആവശ്യമുള്ളതിന്റെ കാരണങ്ങൾ ഇവയാണ് ആദ്യ കാര്യം ഡാറ്റ നിരീക്ഷണത്തിനും വിശകലനത്തിനുമായി ഉയർന്ന കണക്കുകൂട്ടൽ വേഗതയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോം അടിസ്ഥാനപരമായി ക്ലൌഡ് നിങ്ങൾക്ക് നൽകുന്നു എന്നതാണ് രണ്ടാമത്തെ നേട്ടം ക്ലൌഡ് ഉപയോഗിച്ച് വളരെ ലളിതമായ രീതിയിൽ വലിയ അളവിലുള്ള ഡാറ്റ സംഭരിക്കുക എന്നതാണ് മൂന്നാമത്തേത് സേവനങ്ങളുടെ വ്യാപ്തിയും സുരക്ഷയുമാണ് അതിനാൽ അടിസ്ഥാനപരമായി ഒരു പ്രത്യേക ക്ലൌഡ് സർവീസ് സ്റ്റേഷൻ ഒരു ക്ലൌഡ് സേവന ദാതാവായതിനാൽ അവരുടേതായ വ്യത്യസ്ത പ്രക്രിയകളുണ്ട് അതിനാൽ ഒരു സിപിയു പരാജയപ്പെട്ടാലും ഏറ്റെടുക്കാൻ മറ്റ് സിപിയുകൾ ഇവിടെയുണ്ട് അതിനാൽ ഇത് അളക്കാവുന്നതും വിശ്വസനീയവും സുരക്ഷിതവുമായ ക്ലൌഡ് അധിഷ്ഠിത സേവനമാണ് അതിനാൽ സുരക്ഷാ ഭാഗം ഞാൻ നിങ്ങളോട് പറയാം സുരക്ഷയും സ്വകാര്യതയും അതിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന് അതിനാൽ നിങ്ങളുടെ ഡാറ്റ സുരക്ഷിതമാക്കുന്നതിനോ ഡാറ്റയുടെ സ്വകാര്യത വാഗ്ദാനം ചെയ്യുന്നതിനോ ക്ലൌഡ് അടിസ്ഥാനപരമായി ഒരു നല്ല പ്ലാറ്റ്ഫോമല്ലെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഡാറ്റ എവിടെയാണ് സംഭരിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് ആളുകൾ കരുതുന്നതിനാൽ ലോകത്ത് എവിടെയും അത് ചെയ്യാനാകും കൂടാതെ ചില ആളുകൾക്ക് സുരക്ഷയെക്കുറിച്ച് വളരെയധികം ആശങ്കയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല ഡാറ്റ ഡാറ്റയുടെ സ്വകാര്യത തുടങ്ങിയവ എന്നാൽ പൊതുവെ ക്ലൌഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് വിശ്വസനീയമായ ഒരു പ്ലാറ്റ്ഫോം അളക്കാവുന്ന പ്ലാറ്റ്ഫോം ഡാറ്റ സംഭരിക്കാനും കൈകാര്യം ചെയ്യാനും സുരക്ഷിതമായ ഒരു പ്ലാറ്റ്ഫോം എന്നിവ നൽകുമെന്നും ആളുകൾ വിശ്വസിക്കുന്നു അതിനാൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് സംസാരിക്കാം അതിനാൽ നിങ്ങളുടെ ഉയർന്ന നിലവാരമുള്ള കമ്പ്യൂട്ടേഷണൽ ജോലികൾ ശാസ്ത്രീയ ജോലികൾ തുടങ്ങിയവയ്ക്കായി ക്ലൌഡ് നിരവധി കാര്യങ്ങൾക്ക് അനുയോജ്യമാണ് ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ക്ലൌഡ് സഹായകമാകും അതിനാൽ അടിസ്ഥാനപരമായി ക്ലൌഡ് എന്ത് എപ്പോൾ എവിടെ പരിഹാരങ്ങൾ ഓഫറുകൾ കമ്പ്യൂട്ടേഷണൽ പവർ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിലേക്കുള്ള വ്യത്യസ്ത തരം സ്റ്റോറേജ് ആക്സസ് എന്നിവയുടെ ആവശ്യകത നിറവേറ്റുന്നു അങ്ങനെ വിവിധ തരം ആക്സസ്സുകളും മറ്റും സമന്വയിപ്പിക്കാവുന്ന വികസിപ്പിക്കാവുന്ന അതായത് അളക്കാവുന്നതും ഏകോപിപ്പിച്ചതുമായ ബിസിനസ്സ് മോഡൽ അതിനാൽ അടിസ്ഥാനപരമായി വികസിപ്പിക്കാവുന്ന അർത്ഥം എന്താണ് നിങ്ങളുടെ ജോലിയുടെ ചില ഭാഗം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സംഭരണം ആവശ്യമാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ വിപുലീകരിക്കാനും കഴിയും നിങ്ങൾക്ക് അധികമായി ആവശ്യമുള്ളതെന്തും സബ്സ്ക്രൈബുചെയ്യാനും ഈ രീതിയിൽ സ്വയമേവ കൂടുകൂട്ടാനും നിങ്ങൾക്ക് കഴിയും ക്ലൌഡ് പ്ലാറ്റ്ഫോമുകളെ ഇന്നത്തെ മൊബൈൽ ഉപകരണങ്ങൾ പിന്തുണയ്ക്കുന്നു അത് ക്ലൌഡിനെ വളരെ ആകർഷകമാക്കുന്നു അതിനാൽ ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് ക്ലൌഡ്ന്റെ പ്രയോജനം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് മേഘം ജനപ്രിയമായത് എന്തുകൊണ്ട് ക്ലൌഡ് ആവശ്യമാണ് അതിനാൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഇത് എന്താണ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഒരു യൂട്ടിലിറ്റി സേവനമായി വാഗ്ദാനം ചെയ്യുന്ന കമ്പ്യൂട്ടിംഗ് ആണെന്ന് ഞാൻ പറയും അതിനാൽ ഒരു യൂട്ടിലിറ്റി സേവനമായി വാഗ്ദാനം ചെയ്യുന്ന കമ്പ്യൂട്ടിംഗ് എന്താണ് അർത്ഥമാക്കുന്നത് വൈദ്യുതി പോലുള്ള വിവിധ യൂട്ടിലിറ്റി സേവനങ്ങൾ വെള്ളം പോലുള്ള യൂട്ടിലിറ്റി സേവനങ്ങൾ എൽപിജി കണക്ഷനുകൾ പോലുള്ള മറ്റ് നിരവധി യൂട്ടിലിറ്റി സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാം അതിനാൽ ഈ വ്യത്യസ്ത യൂട്ടിലിറ്റി സേവനങ്ങളെക്കുറിച്ച് നമുക്കറിയാം അതിനാൽ ഈ വ്യത്യസ്ത യൂട്ടിലിറ്റി സേവനങ്ങൾക്കായി വൈദ്യുതി വെള്ളം അല്ലെങ്കിൽ എൽപിജി കണക്ഷനുകൾ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വീട്ടിൽ ബൾബുകൾ കത്തിക്കാനും എയർകണ്ടീഷണറുകൾ പ്രവർത്തിപ്പിക്കാനും ഫാനുകൾ പ്രവർത്തിപ്പിക്കാനും മറ്റും നമുക്ക് ആവശ്യമാണ് അതിനാൽ ഞങ്ങൾക്ക് ഈ ആവശ്യകതയുണ്ട് അതിന് നമുക്ക് വൈദ്യുതിയുടെ ആവശ്യകതയുണ്ട് പക്ഷേ ആ വൈദ്യുതി നമ്മൾ സ്വയം ഉത്പാദിപ്പിക്കേണ്ടതില്ല അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു വൈദ്യുതി സേവന ദാതാവ് ഉണ്ട് ആ വൈദ്യുതി സേവന ദാതാവ് ഞങ്ങളുടെ വൈദ്യുതി സേവനങ്ങൾ വൈദ്യുതി സേവന ദാതാവിന് സബ്സ്ക്രൈബ് ചെയ്യണം സേവന ദാതാവ് ആ കണക്ഷൻ വിദൂരമായി നൽകും തീർച്ചയായും ഞങ്ങളുടെ ഭാവി വീടുകളിലേക്കോ ഓഫീസുകളിലേക്കോ ഒരു ഫിസിക്കൽ ഇലക്ട്രിക് കണക്ഷൻ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയുണ്ട് നമുക്ക് ഈ വൈദ്യുതി ആസ്വദിക്കാനാകും അതിനാൽ നമുക്ക് ആവശ്യമുള്ളത്ര ബൾബുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയും നമുക്ക് ആവശ്യമുള്ളത്ര ബൾബുകൾ കത്തിക്കാം നമുക്ക് ആവശ്യമുള്ളത്ര എയർകണ്ടീഷണറുകൾ പ്രവർത്തിപ്പിക്കാനും കഴിയും വൈദ്യുതി തീർന്നു പോകുമോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും വിഷമിക്കുന്നു ഞങ്ങൾക്ക് കൂടുതൽ വൈദ്യുതി ആവശ്യകതകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് തുടരുന്നു എനിക്ക് വളരെ കുറച്ച് വൈദ്യുതി മാത്രമേയുള്ളൂ കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അത് ഒരു സേവനമെന്ന നിലയിൽ പ്രയോജനമാണ് അതിന്റെ സൌന്ദര്യമാണ് നമുക്ക് ആവശ്യമുള്ളത്ര യൂണിറ്റ് വൈദ്യുതി ആസ്വദിക്കുന്നത് ഞങ്ങൾ ഉപയോഗിച്ച വൈദ്യുതി യൂണിറ്റുകളുടെ എണ്ണത്തിന് ഞങ്ങൾ നിരക്ക് ഈടാക്കും അതിനാൽ ഈ എല്ലാ യൂട്ടിലിറ്റി സേവനങ്ങളിലും പേ പെർ യൂസ് ആശയം പ്രയോഗിക്കുന്നു അതിനാൽ ഞാൻ വൈദ്യുതിയുടെ കാര്യം എടുത്തു അത് വെള്ളത്തിനും ബാധകമാണ് അതിനാൽ വെള്ളം വൈദ്യുതി മറ്റ് പല സേവനങ്ങൾ എന്നിവ അടിസ്ഥാനപരമായി ഓരോ ഉപയോഗ മാതൃകയിലും പിന്തുടരുന്നു കാരണം ഞങ്ങൾക്ക് മീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് മീറ്റർ സേവനം ലഭിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബിൽ ചെയ്യും ഈ ഓരോ യൂട്ടിലിറ്റിയിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ട മീറ്ററുകളുടെ കണക്ഷന്റെ യൂണിറ്റുകളുടെ എണ്ണം ഇതേ ആശയം കൂടുതൽ വിപുലീകരിച്ചു വൈദ്യുതി യൂട്ടിലിറ്റിയായി നൽകാമെങ്കിൽ വെള്ളം യൂട്ടിലിറ്റിയായി നൽകാനാകുമെന്നും ആളുകൾക്ക് എങ്ങനെ വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്നും മറ്റും ഉത്കണ്ഠപ്പെടാതെ ഈ സേവനങ്ങൾക്ക് വരിക്കാരാകാമെന്നും ആളുകൾ കരുതി അവർ ഉപയോഗിക്കാൻ പോകുന്ന വൈദ്യുതിയുടെ എണ്ണം അല്ലെങ്കിൽ അവർ ഉപയോഗിക്കാൻ പോകുന്ന മറ്റ് യൂട്ടിലിറ്റികൾ എന്നിവ അടിസ്ഥാനമാക്കി അവർക്ക് ബിൽ ലഭിക്കും എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതേ മാതൃക കമ്പ്യൂട്ടിംഗിൽ സ്വീകരിക്കാൻ കഴിയില്ല അപ്പോൾ പരമ്പരാഗതമായി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു വലിയ കമ്പ്യൂട്ടേഷണൽ ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ കണക്കുകൂട്ടൽ ആവശ്യകതകളുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ പോകേണ്ടിവരും നിങ്ങൾ വാങ്ങേണ്ടിവരുന്ന വലിയ സെർവറുകൾ വാങ്ങേണ്ടിവരുന്ന വ്യത്യസ്ത ഉപകരണങ്ങൾ നിങ്ങൾ വാങ്ങേണ്ടിവരും പണം മുൻകൂട്ടി തുടർന്ന് അവ ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ആ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അതിനാൽ അത് അടിസ്ഥാനപരമായി ബിസിനസ്സ് ആവശ്യകതകൾ വൈകിപ്പിക്കുന്നു ബിസിനസ്സ് പ്രക്രിയകൾ വൈകും സംഭവിക്കുന്ന രണ്ടാമത്തെ കാര്യം ഈ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനായി നിങ്ങൾക്ക് ധാരാളം മുൻകൂർ നിക്ഷേപം ഉണ്ടായിരിക്കണം കാരണം മൂന്നാമത്തെ കാര്യം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിപുലീകരിക്കാൻ കഴിയില്ല എന്നതാണ് അതിനാൽ കമ്പ്യൂട്ടിംഗിനായി ഒരു സേവന ദാതാവ് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലൌഡ് സേവന ദാതാവ് എന്ന് വിളിക്കുന്ന ഒരു കമ്പ്യൂട്ടിംഗ് സേവനദാതാവ് ഉണ്ട് അതിനാൽ ഈ കമ്പ്യൂട്ടിംഗ് സേവന ദാതാവ് ഈ വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ വഴി നൽകും കൂടാതെ ഓൺലൈനായി അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വിവിധ പോർട്ടലുകളിലേക്ക് ലോഗിൻ ചെയ്യാനും നിങ്ങളുടെ ചില ആവശ്യകതകളെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ കമ്പ്യൂട്ടേഷണൽ ജോലികൾ പ്രവർത്തിപ്പിക്കാനും കഴിയും ഇത് അടിസ്ഥാനപരമായി ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ആശയമാണ് യൂട്ടിലിറ്റി എന്ന നിലയിൽ കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചാണ് ക്ലൌഡ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള മാതൃകയിൽ നിങ്ങൾക്ക് ആവശ്യമായ കണക്കുകൂട്ടൽ വിഭവങ്ങൾ ആസ്വദിക്കാൻ കഴിയും നിങ്ങൾക്ക് ആരംഭിക്കാൻ കുറച്ച് വിഭവങ്ങളുണ്ടെങ്കിൽ കുറച്ച് വിഭവങ്ങൾ ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗിക്കുക നിങ്ങൾക്ക് കൂടുതൽ ആവശ്യകതകൾ ഉണ്ട് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് നിങ്ങളുടെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇലാസ്റ്റിക് മാതൃകയാണ് നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങളുടെ അളവ് വിപുലീകരിക്കാനോ കുറയ്ക്കാനോ കഴിയും അതനുസരിച്ച് നിങ്ങൾ കണക്കുകൂട്ടൽ വിഭവങ്ങളുടെ ഉപയോഗ യൂണിറ്റുകൾക്ക് പണം നൽകേണ്ടിവരും അതിനാൽ ഇത് അടിസ്ഥാനപരമായി മുഴുവൻ ആശയവും അല്ലെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ കഥയും അത് എങ്ങനെ പരിണമിച്ചുവെന്നും ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ നേട്ടങ്ങൾ എന്താണെന്നും അതിനാൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ക്ലൌഡിന്റെ വ്യത്യസ്ത മോഡലുകൾ ഉണ്ട് വ്യത്യസ്ത മോഡലുകൾ ഉണ്ട് അത് മൂന്ന് വ്യത്യസ്ത മോഡലുകളിൽ ആരംഭിച്ചു അതിനാൽ അത് വീടായാലും ആശുപത്രി ഫാക്ടറികളായാലും അല്ലെങ്കിൽ ക്ലൌഡ് രൂപത്തിൽ ലഭ്യമായ വ്യത്യസ്ത കണക്കുകൂട്ടൽ വിഭവങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടാകും കമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ് സിപിയു സ്റ്റോറേജ് നെറ്റ്വർക്ക് തുടങ്ങിയവയുടെ രൂപത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്കുകൂട്ടുക എന്നാണ് അതിനാൽ അതാണ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം റിസോഴ്സ് ഉണ്ട് അത് അടിസ്ഥാനപരമായി വികസനം പ്ലാറ്റ്ഫോം മിഡിൽവെയർ സേവനങ്ങൾ ഡാറ്റാബേസ് റൺടൈം തുടങ്ങിയവയാണ് മറ്റ് വിഭവങ്ങളിൽ അടിസ്ഥാനപരമായി ആപ്ലിക്കേഷൻ ഉറവിടങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത സോഫ്റ്റ്വെയർ പ്രകടനം നിരീക്ഷണം തീരുമാനമെടുക്കൽ വിശകലനം പ്രവചനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സോഫ്റ്റ്വെയറാണ് അതിനാൽ ഈ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെല്ലാം ഓരോ പേയ്സ് അടിസ്ഥാനത്തിലും ലഭ്യമാക്കാം അതിനാൽ ഇപ്പോൾ ഞാൻ ഈ വ്യത്യസ്ത ക്ലൌഡ് മോഡലുകളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു അതിനാൽ മൂന്ന് അടിസ്ഥാന സേവനങ്ങൾ ആരംഭിക്കാൻ ഒന്ന് SaaS സോഫ്റ്റ്വെയർ ഒരു സേവനമാണ് അടുത്തത് PaaS ആണ് പ്ലാറ്റ്ഫോം സേവനം മൂന്നാമത്തേത് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ആയ IaaS ആണ് സോഫ്റ്റ്വെയർ സർവീസ് അടിസ്ഥാനപരമായി നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് വെബ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഇന്റർഫേസുള്ള വ്യാവസായിക ആപ്ലിക്കേഷനുകളെക്കുറിച്ചാണ് കൂടാതെ വ്യവസായ ക്ലയന്റുകളുടെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി സബ്സ്ക്രൈബുചെയ്യാൻ കഴിയുന്ന വ്യത്യസ്ത സോഫ്റ്റ്വെയറുകളുണ്ട് ഇവ വരും അന്തിമ ഉൽപ്പന്നം അതിനാൽ ഈ വ്യത്യസ്ത വികസനത്തിനോ വ്യത്യസ്ത ഉപയോഗത്തിനോ വേണ്ടി ഈ സോഫ്റ്റ്വെയർ ലഭ്യമാക്കും അതിനാൽ ഈ സോഫ്റ്റ്വെയർ ഒരു സേവനമെന്ന നിലയിൽ അടിസ്ഥാനപരമായി ഈ സോഫ്റ്റ്വെയർ സേവന ദാതാവ് മുഖേനയാണ് കൈകാര്യം ചെയ്യുന്നത് അതിനാൽ ഈ സേവനങ്ങളെല്ലാം വാഗ്ദാനം ചെയ്യുന്ന ഒരു സേവന ദാതാവ് ഉണ്ടായിരിക്കണം ഞങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കാര്യത്തിനും അദ്ദേഹം അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് ബില്ലിംഗ് നൽകുന്നു ഇൻഡസ്ട്രിയൽ ഡൊമെയ്നിൽ അതാണ് വ്യാവസായിക ഉപയോഗത്തിന് ഒരു SaaS ക്ലൌഡ് സീമെൻസിൽ നിന്നുള്ള SaaS ക്ലൌഡിന്റെ പേരാണ് ഇൻഡസ്ട്രിയൽ മെഷിനറി കാറ്റലിസ്റ്റ് പ്ലാറ്റ്ഫോം സർവീസ് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ സേവനം വ്യവസായങ്ങൾക്ക് വികസന പ്ലാറ്റ്ഫോമുകളും ആർക്കും വികസന പ്ലാറ്റ്ഫോമുകളും നൽകുന്നു എന്നാൽ വ്യാവസായിക പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായി വ്യവസായങ്ങൾ അതിനാൽ ഇവിടെയുള്ള ക്ലയന്റുകൾക്ക് അവരുടെ ആപ്ലിക്കേഷനുകളുടെയും കോൺഫിഗറേഷൻ പരിതസ്ഥിതിയുടെയും നിയന്ത്രണമുണ്ട് അതിനാൽ വ്യത്യസ്ത പ്ലാറ്റ്ഫോം സേവനങ്ങൾ ലഭ്യമാണ് അതിനാൽ ഡവലപ്പർമാർ പ്രത്യേകിച്ച് ഡവലപ്പർമാർക്ക് ലഭ്യമായ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടാകാം കൂടാതെ ഓൺലൈൻ ആക്സസ് വഴി പ്ലാറ്റ്ഫോം ഓൺലൈനിൽ ലഭ്യമാണെന്ന് അവർ വിന്യസിക്കേണ്ടതില്ല അവ ഉപയോഗിക്കാൻ തുടങ്ങും വ്യാവസായിക ക്രമീകരണങ്ങളിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ ജിഇയിൽ ചില വ്യാവസായിക പാസ് ക്ലൌഡ് ദാതാക്കൾ എന്നിവയാണ് ഒരു Cuulocity Bosch IoT Carriots പോലുള്ള സോഫ്റ്റ്വെയർ വ്യത്യസ്ത IoT വ്യവസായങ്ങൾക്കുള്ള സേവനമായി പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുന്നു ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥ കമ്പ്യൂട്ടേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയവയെക്കുറിച്ചാണ് അതിനാൽ ഇവിടെ ഞങ്ങൾ ഈ കമ്പ്യൂട്ടേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറേജ് ഉണ്ട് കൂടാതെ മറ്റ് ചില സേവന മോഡലുകളും ആമസോൺ വെബ് സേവനങ്ങളിലും നടപ്പിലാക്കുന്നു അതിനാൽ വ്യത്യസ്ത തരം ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് മോഡലുകളുടെയും അവ വാഗ്ദാനം ചെയ്യുന്ന സേവനങ്ങളുടെയും ചില ഉദാഹരണങ്ങളാണ് ഇവ അതിനാൽ ഇവയാണ് വ്യത്യസ്ത മോഡലുകൾ ഇവയുടെ മറ്റൊരു വർഗ്ഗീകരണം എന്നാൽ അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് വളരെ രസകരമായ എന്തെങ്കിലും കാണിക്കാൻ ആഗ്രഹിച്ചു അതിനാൽ ആമസോൺ ക്ലൌഡിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് ഞങ്ങൾ സബ്സ്ക്രൈബുചെയ്തിരിക്കുന്ന ഈ ക്ലൌഡിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത് നിങ്ങൾക്ക് എങ്ങനെ കാണാനാകുമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിച്ചത് അതിനാൽ ഇവയാണ് ഞങ്ങൾ സബ്സ്ക്രൈബുചെയ്തിരിക്കുന്ന സിപിയു മെമ്മറി ഇഥർനെറ്റ് തുടങ്ങിയവയുടെ യൂണിറ്റുകൾ കൂടാതെ ഇത് അടിസ്ഥാനപരമായി ഹാർഡ് ഡിസ്ക് സംഭരണ ഇടം കാണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് തിരികെ പോകാനും മറ്റും കഴിയും അതിനാൽ ഇത് നിങ്ങളുടെ സ്വന്തം പിസിയെ നോക്കുന്ന രീതിക്ക് വളരെ സാമ്യമുള്ളതാണ് പക്ഷേ ഇത് നമ്മുടെ സ്വന്തം പിസി അല്ലെന്ന് ഓർക്കുക അടിസ്ഥാനപരമായി ഇത് വിദൂര കമ്പ്യൂട്ടേഷണൽ ഇൻഫ്രാസ്ട്രക്ചറിനായി ക്ലൌഡ് ആക്സസിലേക്ക് എങ്ങനെയാണ് കാണപ്പെടുന്നത് അതിനാൽ ഇത് ഒരു കാര്യമാണ് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അടിസ്ഥാന സൌകര്യമായ മറ്റൊന്ന് കാണിച്ചുതരാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ IaaS അതിനാൽ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബുചെയ്ത ഈ മൊത്തത്തിലുള്ള പ്ലാറ്റ്ഫോമാണ് ഇത് ഇത് അടിസ്ഥാനപരമായി പ്ലാറ്റ്ഫോം സർവീസ് ആണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ വിൻഡോസ് പ്ലാറ്റ്ഫോം ഇതാണ് എനിക്ക് മറ്റെന്തെങ്കിലും കാണിക്കാം സോഫ്റ്റ്വെയർ ക്ലൌഡ് കാണിക്കാം സോഫ്റ്റ്വെയർ ക്ലൌഡിന്റെ മറ്റൊരു ഉദാഹരണം അടിസ്ഥാനപരമായി ഈ ഓഫീസ് 365 ആണ് ഇത് ഓഫീസ് 365 അടിസ്ഥാനമാക്കിയുള്ള ഒരു ഉദാഹരണമാണ് ഇത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ സർവീസിന്റെ ഒരു ഉദാഹരണമാണ് അതു പോലെ വാസ്തവത്തിൽ വ്യത്യസ്ത സോഫ്റ്റ്വെയറിന്റെ സേവന മോഡലുകൾ വ്യത്യസ്ത ഉപയോക്താക്കൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട് അതിനാൽ ഞാൻ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് തിരികെ പോകട്ടെ അതിനാൽ ഈ വ്യത്യസ്ത തരം ക്ലൌഡ് ആമസോൺ ക്ലൌഡ് മൈക്രോസോഫ്റ്റ് ക്ലൌഡ് ഉദാഹരണം എന്നിവ ഞാൻ നോക്കേണ്ടതുണ്ട് മേഘങ്ങളുടെ മറ്റൊരു വർഗ്ഗീകരണമുണ്ട് അതിനാൽ സോഫ്റ്റ്വെയർ സർവീസ് പ്ലാറ്റ്ഫോം സർവീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് എന്നിങ്ങനെ ക്ലൌഡ് ഒന്ന് ഈ മോഡലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിന്യാസ മോഡൽ അവകാശത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു വർഗ്ഗീകരണം ഉണ്ട് അതിനാൽ വിന്യാസ മാതൃകയുടെ അടിസ്ഥാനത്തിൽ ക്ലൌഡിനെ മൂന്ന് തരങ്ങളായി തരം തിരിക്കാം ഒന്ന് പൊതു ക്ലൌഡ് അതിനാൽ ഏതൊരു വ്യക്തിയുടേയോ വ്യവസായത്തിന്റെയോ ഉപയോഗത്തിനായി പബ്ലിക് ക്ലൌഡ് സജ്ജീകരിച്ചിരിക്കുന്നു അതേസമയം സ്വകാര്യ ക്ലൌഡ് സ്ഥാപിച്ചത് ഉദാഹരണത്തിന് ഒരൊറ്റ ഓർഗനൈസേഷനാണ് ഐഐടി ഖരഗ്പൂരിനും സ്വന്തമായി ഒരു സ്വകാര്യ മേഘമുണ്ട് ഹൈബ്രിഡ് ക്ലൌഡ് അടിസ്ഥാനപരമായി പൊതു സ്വകാര്യ സംയോജനമാണ് രണ്ടോ അതിലധികമോ അതുല്യമായ ക്ലൌഡ് സെറ്റപ്പ് ദാതാക്കൾ സജ്ജീകരിച്ച ഒരു മേഘമാണിത് അതിനാൽ പൊതുവായതും സ്വകാര്യവുമായത് ഹൈബ്രിഡിന് അടിസ്ഥാനപരമായി പൊതു സ്വകാര്യ ക്ലൌഡിന്റെ ഗുണങ്ങളുണ്ട് അതിനാൽ IIoT ൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൽ അന്തിമ ഉപയോക്താക്കൾ വളരെ പ്രധാനമാണ് അതിനാൽ വ്യവസായങ്ങളിലെ അന്തിമ ഉപയോക്താക്കൾക്ക് ക്ലൌഡ് സേവനങ്ങളിലേക്ക് സോഫ്റ്റ്വെയർ സർവീസ് പ്ലാറ്റ്ഫോം സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് എന്നിങ്ങനെ ആക്സസ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു വ്യാവസായിക അന്തിമ ഉപയോക്താക്കൾക്ക് ആക്സസ് ആവശ്യമാണ് ക്ലൌഡ് സേവനങ്ങളും ഈ സേവനങ്ങളും സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് വ്യത്യസ്തമായിരിക്കും അവ അവരുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഐഐഒടിക്ക് ഉപയോഗിക്കുന്ന ഡൊമെയ്നുകൾ ഹെൽത്ത് കെയർ ട്രാൻസ്പോർട്ടേഷൻ മാനുഫാക്ചറിംഗ് പ്ലാന്റ് റിഫൈനറികൾ മൈനിംഗ് മറൈൻ തുടങ്ങി നിരവധി മേഖലകളിലാണ് അതിനാൽ ഇത് ഒരു ക്ലൌഡ് അധിഷ്ഠിത IIoT ആർക്കിടെക്ചറാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനാൽ ഏറ്റവും താഴെയായി നമുക്ക് ഈ വ്യത്യസ്ത സെൻസറുകളും വ്യത്യസ്ത ഉപകരണങ്ങളും ഉണ്ട് തുടർന്ന് വ്യത്യസ്ത എഡ്ജ് ഉപകരണങ്ങളും മറ്റും ഉള്ള ഒരു ഗേറ്റ്വേ ലെയർ ഉണ്ട് നിങ്ങൾക്ക് ക്ലൌഡിലുള്ള ഡാറ്റ ഏറ്റെടുക്കൽ പാളി ഉണ്ട് വ്യത്യസ്ത വ്യാവസായിക ആപ്ലിക്കേഷനുകൾ ക്ലൌഡിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് മേഘവുമായുള്ള IIoT ന്റെ സംയോജനമാണ് അതിനാൽ ഞങ്ങൾക്ക് ഒരു ക്ലൌഡ് IIoT ആർക്കിടെക്ചർ ഉണ്ട് അടിസ്ഥാനപരമായി ക്ലൌഡിന്റെ ഉപയോഗത്തിന്റെ വ്യാവസായിക ക്രമീകരണങ്ങൾക്ക് ഇതാണ് മൊത്തത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതിനാൽ IIoT ഇൻഡസ്ട്രിയൽ ബിഗ് ഡാറ്റ സ്റ്റോറേജിലെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ അനലിറ്റിക്സിനായുള്ള ഹെവിവെയ്റ്റ് അൽഗോരിതങ്ങൾ നടപ്പിലാക്കാൻ കഴിയും സംഭവങ്ങൾക്ക് മുമ്പുള്ള പരാജയങ്ങൾ പ്രവചിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ചെയ്യാനാകും ക്ലൌഡിന്റെ സഹായത്തോടെ വിദൂരമായി ഉപകരണ പ്രൊവിഷനും കോൺഫിഗറേഷനും ചെയ്യാം തത്സമയ ഉപകരണ നിരീക്ഷണം നടത്താം ഡാറ്റ സ്വകാര്യതയും സുരക്ഷാ ആക്സസും സഹായത്തോടെ നൽകാം മേഘം അതിനാൽ ഉപഭോക്തൃ വ്യാവസായിക ഐഒടി ക്ലൌഡ് പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്തൃ ഐഒടി ക്ലൌഡ് പ്ലാറ്റ്ഫോമുകൾക്ക് അന്തിമ ഉപയോക്താക്കൾക്ക് വളരെ നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകൾ ഉണ്ട് അവയ്ക്ക് മിതമായ സുരക്ഷ നിലവിലുണ്ട് അവ വളരെ ചെലവ് സെൻസിറ്റീവ് ആണ് ഇൻഡസ്ട്രിയൽ ഐഒടി ക്ലൌഡ് പ്ലാറ്റ്ഫോമുകൾ പ്ലഗിൻ ചെയ്യുന്നതിനായി ധാരാളം ഡാറ്റ പോയിന്റുകൾ പ്രവർത്തനക്ഷമമാക്കുന്നു ഇൻഡസ്ട്രി സ്കെയിൽ ആപ്ലിക്കേഷനുകൾക്ക് വളരെ പ്രധാനപ്പെട്ട സേവനത്തിന്റെ ഗുണമേന്മയെ പിന്തുണയ്ക്കുന്നു കൂടാതെ ഉപഭോക്തൃ ഐഒടി ക്ലൌഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ശക്തമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ വ്യാവസായിക ഐഒടി ക്ലൌഡ് ആർഒഐയിലും ഉപഭോക്തൃ IoT ക്ലൌഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പരിഗണന അതിനാൽ ഇവ വ്യത്യസ്ത വ്യാവസായിക ക്ലൌഡ് പ്ലാറ്റ്ഫോം ദാതാക്കളാണ് അതിനാൽ അവയിലൊന്നും ഞാൻ പോകുന്നില്ല എന്നാൽ ഇവ ഈ ഉദാഹരണങ്ങളിൽ ചിലതാണ് തിംഗ്വർക്സ് ഒന്നാണ് ക്യുമുലോസിറ്റി കൂടാതെ മറ്റ് നിരവധി ദാതാക്കൾ വ്യാവസായിക തലത്തിലുള്ള ക്ലൌഡ് പ്ലാറ്റ്ഫോം ദാതാക്കളും അവരുടെ പേരുകളും നൽകിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ അവയിൽ പലതും ഐഒടിക്ക് ബാധകമാണ് അതിനർത്ഥം അവർക്ക് IoT പ്രവർത്തനക്ഷമതയുണ്ടെന്നാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി IoT ക്ലൌഡ് ദാതാക്കളാണ് അതിനാൽ വ്യാവസായിക ക്ലൌഡ് പ്ലാറ്റ്ഫോം ദാതാക്കൾ അങ്ങനെ വിവിധ വ്യവസായ കമ്പനികൾ ജിഇയിൽ ഹണിവെൽ മേഘവും അവിടെയുണ്ട് C3IoT Uptake Meshify തുടങ്ങിയ വ്യത്യസ്ത സോഫ്റ്റ്വെയർ ഡെവലപ്പ്മെന്റ് സ്ഥാപനങ്ങൾ മറ്റ് ഉദാഹരണങ്ങളാണ് മൂലധനത്തിന്റെ ട്രാക്കിംഗ് മാനേജ്മെന്റ് മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായി ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം സർവീസ് ക്ലൌഡാണ് പ്രിഡിക്സ് പ്രെഡിക്സ് അടിസ്ഥാനപരമായി സിസ്റ്റത്തിന്റെയും ഓർഗനൈസേഷന്റെയും അവയുടെ ഘടകങ്ങളുടെയും ഓർഗനൈസേഷനെ നിർവചിക്കുന്നു കൂടാതെ പ്രിഡിക്സിന് അടിസ്ഥാനപരമായി ഡിജിറ്റൽ ട്വിനിനുള്ള പിന്തുണയുണ്ട് ഇത് മിക്ക വ്യാവസായിക നിർമ്മാണ ക്രമീകരണങ്ങൾക്കും വളരെ അത്യാവശ്യമാണ് അതിനാൽ വിവിധ ആസ്തികളുടെ പഠനം വിലയിരുത്തൽ ഒപ്റ്റിമൈസേഷൻ പ്രാതിനിധ്യം എന്നിവയ്ക്കായുള്ള ഡിജിറ്റൽ ട്വിൻ സാങ്കേതികവിദ്യ അതിനാൽ വ്യാവസായിക നിർമ്മാണ മേഖലകൾക്ക് ആവശ്യമായ ഈ ആവശ്യകതകൾക്ക് പ്രെഡിക്സിന് അടിസ്ഥാനപരമായി ഈ പിന്തുണയുണ്ട് അതിനാൽ ഈ പ്രെഡിക്സ് പ്ലാറ്റ്ഫോം ഏറ്റവും താഴെയായി കാണപ്പെടുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വ്യാവസായിക ആപ്ലിക്കേഷനുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മധ്യത്തിൽ നമുക്ക് അനലിറ്റിക്സ് മെഷീൻ ലേണിംഗ് ഇൻഡസ്ട്രിയൽ ഡാറ്റാ ഫാബ്രിക് ഡിസ്ട്രിബ്യൂട്ട് എന്നിങ്ങനെ വ്യത്യസ്ത ഘടകങ്ങളുണ്ട് അതിനാൽ പ്ലാറ്റ്ഫോം ഘടന ഇങ്ങനെയാണ് ഇത് പ്രവചിക്കുന്നത് IoT യ്ക്കുള്ള മറ്റൊരു ക്ലൌഡ് അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്ലാറ്റ്ഫോമാണ് മൈൻഡ്സ്ഫിയർ ഇത് AWS ക്ലൌഡ് സേവനത്തിന് പുറമേ ഒരു തുറന്ന പ്ലാറ്റ്ഫോമാണ് ഇത് ഫാക്ടറി ഉൽപ്പന്നം യന്ത്രങ്ങൾ സംവിധാനങ്ങൾ മറ്റ് വ്യാവസായിക യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നുള്ള IoT ഡാറ്റ ഒരുമിച്ച് കൊണ്ടുവരുന്നു ഇത് ഒരു എന്റർപ്രൈസ് അധിഷ്ഠിത പരിഹാരം നൽകുന്നു ഇത് അടിസ്ഥാനപരമായി MindSphere ന്റെ മൊത്തത്തിലുള്ള സവിശേഷതകളും ഗുണങ്ങളും കാണിക്കുന്നു MindSphere അടിസ്ഥാനപരമായി വലിയ സിസ്റ്റം നെറ്റ്വർക്ക് നൽകുന്നു പാരിസ്ഥിതിക വ്യാവസായിക പരിഹാരങ്ങളെ പിന്തുണയ്ക്കുന്നതിന് PaaS ക്ലൌഡ് സേവനങ്ങളുണ്ട് കൂടാതെ മറ്റു പലതും ഉണ്ട് എന്നതാണ് നേട്ടങ്ങൾ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് സുരക്ഷാ പിന്തുണയുണ്ട് സുരക്ഷിതമായ സേവനങ്ങൾ സംഭരണം വിതരണം എന്നിവയ്ക്കുള്ള പിന്തുണ വിശകലനത്തിനും പ്രകടനത്തിന്റെയും ബുദ്ധിയുടെയും യാന്ത്രിക പര്യവേക്ഷണത്തിനും വിവിധ API കൾ നൽകുന്നു പ്രകടന ഒപ്റ്റിമൈസേഷനായി ഹണീവെല്ലിന് സ്വന്തമായി ക്ലൌഡ് സർവീസ് പ്രൊവിഷനിംഗ് ഉണ്ട് പ്രക്രിയകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ ഡ്രൈവിംഗ് ഏജന്റുകൾ ഡിസൈൻ കഴിവുകൾ എന്നിവ ഹണിവെൽ ക്ലൌഡ് സേവനത്തിന്റെ വ്യത്യസ്ത ഉപയോഗമാണ് പ്രത്യേകിച്ചും ഇത് വ്യത്യസ്ത എണ്ണ വാതക വ്യവസായങ്ങളെ ലക്ഷ്യമിടുന്നു ഹണിവെൽ ക്ലൌഡ് സേവനം സുരക്ഷിതവും അളക്കാവുന്നതും സ്റ്റാൻഡേർഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് ഇത് SaaS ബിസിനസ്സ് മോഡലുകളെയും പിന്തുണയ്ക്കുന്നു അതിനാൽ ഇത് ഹണിവെൽ ക്ലൌഡ് സേവനമാണ് നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സ് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യാനാകും ഓൺസൈറ്റ് നിയന്ത്രണവും മാനേജ്മെന്റും ഉപകരണങ്ങളുടെയും ആസ്തികളുടെയും ബന്ധിപ്പിക്കപ്പെട്ട ലോകമാണ് അതായത് IoT അടിസ്ഥാനപരമായി പ്രാപ്തമാക്കുന്നതും മികച്ചതും സുരക്ഷിതവുമായ സഖ്യവുമാണ് ഹണിവെൽ ക്ലൌഡിന്റെ വ്യത്യസ്ത സവിശേഷതകൾ അതിനാൽ ഇത് അവസാനിക്കുന്നു ഞങ്ങൾ പരിരക്ഷിച്ച ചില കാര്യങ്ങളുടെ വ്യത്യസ്ത റഫറൻസുകളുടെ ഈ ലിസ്റ്റ് ഞങ്ങളുടെ പക്കലുണ്ട് IIoT ക്ലൌഡിനായുള്ള ഈ വ്യാവസായിക തലത്തിലുള്ള ചില പരിഹാരങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു കൂടാതെ വ്യവസായ നിർദ്ദിഷ്ട ആവശ്യകതകൾ വ്യത്യസ്തമാണെന്നും ഞങ്ങൾ കണ്ടു അതിനാൽ IoT ക്ലൌഡിനെക്കാൾ IIoT ക്ലൌഡ് കൂടുതൽ രസകരമാണ് കൂടാതെ IIoT യുടെ പിന്തുണ ആവശ്യകതകൾ ഉള്ള വിവിധ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വ്യത്യസ്ത പരിഹാരങ്ങൾ ഇതിനകം വിപണിയിൽ ഉണ്ട് ഐഒടിയും അവയുടെ വിന്യാസവും അതിനാൽ ഇവയെല്ലാം വ്യത്യസ്തമായ പരാമർശങ്ങളാണ് ഇതോടെ ഞങ്ങൾ അവസാനിക്കുന്നു വളരെയധികം നന്ദി